ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പോൾ എസ്റ്റിമേറ്റ് ടെക്നിക്കുകളുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ തുടരാം വിവിധ എസ്റ്റിമേറ്റിംഗ് രീതികളുടെ ഒരു ടാക്സോണമി ഇവിടെ കാണുക ഈ വലുപ്പ കണക്കാക്കലിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം നിലവിലുള്ള എസ്റ്റിമേറ്റ് രീതികളുടെ ഒരു ടാക്സോണമി ആയ ഒരു തരം ടാക്സോണമി നമുക്ക് ചർച്ച ചെയ്യാം കണക്കാക്കൽ മുകളിലേയ്ക്കോ താഴേയ്ക്കോ ആകാം അതിനാൽ ഇവിടെ സാധാരണയായി അവ ആക്റ്റിവിറ്റി അധിഷ്ഠിതവും വിശകലനപരവുമാണ് തുടർന്ന് എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ പാരാമെട്രിക് അല്ലെങ്കിൽ അൽഗോരിതം മോഡലുകളാകാം ഒരു ഉദാഹരണം ഫംഗ്ഷൻ പോയിന്റുകൾ അവ അടുത്ത ക്ലാസിൽ നമ്മൾ ചർച്ച ചെയ്യും വിദഗ്ദ്ധമായ ന്യായവിധി സാങ്കേതികത അത് രീതി വിദഗ്ദ്ധമായ വിധിന്യായത്തിന്റെ മറ്റൊരു വിഭാഗമാണ് ഇവിടെ വിവിധ എസ്റ്റിമേറ്റുകൾ ഊഹിക്കുന്നു പ്രാരംഭ ഊഹത്തോടെ എസ്റ്റിമേറ്റ് നടപടിക്രമം ആരംഭിക്കുന്നു അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു പ്രോജക്റ്റ് എങ്ങനെയാണ് സാമ്യമെന്നു നമ്മൾ ചർച്ച ചെയ്യണം ഇത് നിലവിലുള്ള മറ്റൊരു പ്രോജക്റ്റിന് സമാനമാണ് തുടർന്ന് ആവശ്യമായ പാരാമീറ്ററുകൾ കണക്കാക്കാം ഇവ സാധാരണയായി കേസ് അടിസ്ഥാനമാക്കിയുള്ളവയാണ് അവ താരതമ്യ തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടാതെ കണക്കാക്കാനുള്ള മറ്റൊരു രീതി വിജയിക്കാനുള്ള വിലയാണ് രീതി നേടുന്നതിനുള്ള വിലയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം അത് എന്താണ് പറയുന്നത് ഉപഭോക്താവിന് ചെലവഴിക്കാൻ കഴിയുന്നതെന്തും പ്രോജക്ടിന്റെ ചിലവാണ് ഇതനുസരിച്ച് ചെലവ് അല്ലെങ്കിൽ കണക്കാക്കിയ പ്രോജക്റ്റ് ചെലവ് എന്നാൽ ഉപഭോക്താവിന് ചെലവഴിക്കാൻ കഴിയുന്ന ചെലവാണ് അതിന്റെ നേട്ടം എന്നത് നിങ്ങൾക്ക് ആ കരാർ ലഭിക്കുംഎന്നതാണ് അവയുടെ ദോഷ൦ എന്നാൽ ആവിശ്യമുള്ള ജോലിയെ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് അതിനാൽ ഇവിടെ ഒന്നുകിൽ ഉപഭോക്താവിന് ആവശ്യമുള്ള സിസ്റ്റം ലഭിക്കുകയില്ല അല്ലെങ്കിൽ ഉപഭോക്താവിന് എന്ത് സംഭവിക്കും എന്നത് ശമ്പളത്തിന് മുകളിലായിരിക്കും കാരണം ജോലി കുറവാണ് കൂടാതെ ജോലി അല്ലെങ്കിൽ സേവനവുമായി ബന്ധപ്പെട്ട് അഭികാമ്യമായതിനേക്കാൾ കൂടുതൽ അയാൾക്ക് കിട്ടുന്നു ഈ സമീപനം വളരെ അധാർമ്മികവും വാണിജ്യപരമല്ലാത്തതുമാണെന്ന് തോന്നിയേക്കാം കാരണം അവ ചിലവ് ആവശ്യമുള്ള ജോലിയുടെ അളവ് കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് നിങ്ങൾ കണ്ടു ഈ ഏകദേശരീതി അനീതിപരവും ബിസിനസ്സ് പോലെയുമാണെന്ന് തോന്നാം എന്നിരുന്നാലും ജോലിയുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ഈ രീതി ഉചിതമായ തന്ത്രമായിരിക്കാം അതിനാൽ ഏറ്റവും ധാർമ്മിക സമീപനം ഏതാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒരു ഔട്ട്ലൈൻ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി ചെലവ് അംഗീകരിക്കുന്നത് ആ ചെലവ് അനുസരിച്ച് വികസനം നിയന്ത്രിക്കപ്പെടുന്നു അതിനാൽ പ്രോജക്റ്റ് ചെലവ് സാധാരണഗതിയിൽ ഈ ഡവലപ്പറിലെ ക്ലയന്റ് തമ്മിൽ ഒരു ഔട്ട്ലൈൻ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി ആ ഉടമ്പടി അംഗീകരിക്കുകയും വികസനം ആ ചെലവിൽ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു അതിനാൽ ധാർമ്മികവും വിശദമായ ഒരു സവിശേഷതയും ചർച്ച ചെയ്യപ്പെടാം അല്ലെങ്കിൽ സിസ്റ്റം വികസനത്തിനായി ഒരു പരിണാമ സമീപനം ഉപയോഗിക്കാം പദ്ധതി ആസൂത്രണത്തിനായി ഏതെല്ലാം പാരാമീറ്ററുകൾ കണക്കാക്കണം പരിശ്രമം അല്ലെങ്കിൽ പരോക്ഷമായി ചെലവും ദൈർഘ്യവും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് പക്ഷേ ഒരു പ്രശ്ന വിവരണത്തിൽ നിന്ന് നേരിട്ട് പരിശ്രമം അല്ലെങ്കിൽ ചെലവ് അല്ലെങ്കിൽ ദൈർഘ്യം കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പരിശ്രമവും കാലാവധിയും പ്രോജക്റ്റ് വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവ അളക്കാൻ കഴിയും ഇത് ഒരു പരോക്ഷ മെട്രിക്കും പ്രോജക്റ്റ് വലുപ്പവുമായ എൽഓസി അതായത് ലൈൻസ് ഓഫ് കോഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ പോയിന്റായ എഫ്പി ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ കഴിയും വലുപ്പത്തെ പരിശ്രമവും കോസ്റ്റ് ദൈർഘ്യവും നേരിട്ട് കണക്കാക്കാൻ കഴിയില്ല വലുപ്പം ജോലിയുടെ അടിസ്ഥാന അളവുകോലാണ് ഇതിനെ അടിസ്ഥാനമാക്കി പരിശ്രമം ദൈർഘ്യം എന്നിവ പോലുള്ള മറ്റ് പാരാമീറ്ററുകൾ നമുക്ക് കണക്കാക്കാം അപ്പോൾ വലുപ്പം എന്നാൽ ജോലിയുടെ അടിസ്ഥാന അളവ് എന്നാണ് ഇതിനെ അടിസ്ഥാനമാക്കി മറ്റു രണ്ടു പരാമീറ്ററുകൾ ആയ പരിശ്രമവും ദൈർഘ്യവും കണക്കാക്കാൻ കഴിയും ശ്രമം എന്നത് സാധാരണ വ്യക്തിയുടെ മാസമായി കണക്കാക്കപ്പെടുന്നു ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ശ്രമം വ്യക്തിഗത മാസത്തിൽ അളക്കുന്നു വ്യക്തിയുടെ മാസം എങ്ങനെ നിർവചിക്കപ്പെടുന്നു ഒരു വ്യക്തിക്ക് സാധാരണഗതിയിൽ ഒരു മാസ൦ നൽകാനുള്ള ശ്രമമാണ് ഒരു വ്യക്തിയുടെ മാസ൦ എന്ന് നിർവചിക്കുന്നത് അതിനാൽ ഒരു വ്യക്തിയുടെ മാസം എന്നാൽ ഒരു വ്യക്തിക്ക് സാധാരണ ചെയ്യാൻ കഴിയുന്ന ശ്രമമാണ് ഇവിടെ ഈ രീതിയിൽ നമുക്ക് ഇത് കണക്കാക്കാം നമുക്ക് വ്യക്തി മാസത്തെ നിർവചിക്കാൻ കഴിയുന്ന വ്യക്തിയും വ്യക്തിഗത മാസവും ഉപയോഗിച്ച് നമുക്ക് നിർവചിക്കാം പരിശ്രമം അളക്കാൻ കഴിയും അതിനാൽ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതുപോലെനിങ്ങൾ വലുപ്പം കണക്കുകൂട്ടണം തുടർന്ന് നമുക്ക് പരിശ്രമവും ദൈർഘ്യവും കണക്കാക്കാം അപ്പോൾ വലുപ്പം എന്താണ് ഇത് ചെയ്യുന്ന ജോലിയുടെ അളവുകോലാണ് പ്രശ്നത്തിന്റെ സങ്കീർണ്ണതയുടെ അളവുകോലാണ് പ്രോജക്റ്റ് വലുപ്പം പ്രോജക്റ്റ് വലുപ്പത്തെ എന്തിനെ അടിസ്ഥാനമാക്കി പ്രശ്ന സങ്കീർണ്ണതയുടെ അളവുകോലായി കണക്കാക്കാം ഉൽപ്പന്നം വികസിപ്പിക്കുന്നതിന് ആവശ്യമായ പരിശ്രമവും സമയവും കണക്കിലെടുക്കുമ്പോൾ പ്രോജക്റ്റ് വലുപ്പം അളക്കാൻ രണ്ട് അളവുകൾ ജനപ്രിയമായി ഉപയോഗിക്കുന്നു ഒരെണ്ണം എൽഓസി ആണെന്ന് ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മികച്ച രീതിയിൽ പറഞ്ഞാൽ കോഡിന്റെ ഉറവിട ലൈനുകൾ അല്ലെങ്കിൽ എസ്എൽഓസി എന്നും മറ്റൊന്ന് ഫംഗ്ഷൻ പോയിന്റ് അല്ലെങ്കിൽ എഫ്പി എന്നും പറയാൻ കഴിയും അതിനാൽ എസഎൽഓസി ആശയപരമായി വളരെ ലളിതമാണ് കോഡിന്റെ വരികൾ കോഡിന്റെ സോഴ്സ് ലൈനുകൾ കണക്കാക്കേണ്ടത് വളരെ ലളിതമാണ് പക്ഷേ എഫ്പി ഇപ്പോൾ വളരെ ലളിതമാണ് അത് ഒരുഎസഎൽഓസി നേക്കാൾ പ്രിയങ്കരമാണ് എസഎൽഓസി യുടെ നിരവധി പോരായ്മകൾ കാരണം ആണ് ഇപ്പോൾ ആളുകൾ എഫ്പി ഉപയോഗിക്കുന്നതും എസഎൽഓസി നേക്കാൾ മുൻഗണന നൽകുന്നതും എസഎൽഓസി യുടെ നിരവധി പോരായ്മകൾ കുറച്ച് മിനിറ്റിനുശേഷം നമ്മൾ ചർച്ച ചെയ്യും ലൈൻസ് ഓഫ് കോഡ് എന്നാൽ എന്താണ് അടിസ്ഥാനപരമായി ഒരു വരി ഉപയോഗിച്ച് കാർഡുകളിൽ പ്രോഗ്രാമുകൾ ടൈപ്പുചെയ്യുമ്പോൾ ഈ കോഡ് വരികൾ നിർദ്ദേശിക്കപ്പെടുന്നു മുമ്പ് ആളുകൾ പഞ്ച് കാർഡുകൾ ആണ് ഉപയോഗിച്ചിരുന്നത് ആ സമയത്ത് ഈ കോഡ് വരികൾ നിർദ്ദേശിക്കപ്പെട്ടു ആളുകൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കാർഡുകളിൽ പഞ്ച് കാർഡുകളിൽ ആയിരുന്നു ടൈപ്പു ചെയ്തിരുന്നത് കാർഡിനായി ഒരു വരിയിൽ ടൈപ്പുചെയ്യുമ്പോഴാണ് ഇത് നിർദ്ദേശിച്ചത് അതിനാൽ ജാവയിലെ പ്രസ്താവനകൾ നിരവധി വരികൾ വ്യാപിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വരിയിൽ നിരവധി പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ എന്തുസംഭവിക്കും ഇത് കോഡിന്റെ വരികളുടെ പോരായ്മയാണെന്ന് കാണുക ഒരു കാർഡിനായി ഒരു വരി മാത്രമേ നൽകാനാകൂ എന്നത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് വികസിപ്പിച്ചത് ഈ മെട്രിക് അർത്ഥവത്തായിരുന്നു എന്നാൽ എപ്പോൾ വ്യത്യസ്ത പ്രോഗ്രാമിംഗ് ഭാഷ ജാവ പോലുള്ള ഉയർന്ന ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകൾ വന്നു ചില സന്ദർഭങ്ങളിൽ ഈ പ്രസ്താവനകൾ അവ നിരവധി വരികളിലായി വ്യാപിക്കുന്നു അല്ലെങ്കിൽ ഒരു വരിയിൽ നിങ്ങൾക്ക് പ്രസ്താവനകൾ ഉയർത്താം പ്രോഗ്രാം വലുപ്പം അളക്കാൻ അനുയോജ്യമായ മെട്രിക് എന്നതിന്റെ അളവുകോലായിരിക്കില്ല കോഡ് അതുപോലെ തന്നെ സിസ്റ്റത്തിന്റെ ഭാഗമായി ഏതെല്ലാം പ്രോഗ്രാമുകൾ കണക്കാക്കണം സിസ്റ്റത്തിന്റെ ഭാഗമായി എന്ത് പ്രോഗ്രാമുകൾ കണക്കാക്കും ഉദാഹരണത്തിന് ജിയുഐ ഇത് ഒരു പ്രവർത്തനപരമായ ആവശ്യകതയല്ല പക്ഷേ ഇത് ഒരു ജിയുഐ രൂപകൽപ്പന ചെയ്യുന്നതിനായി എഴുതിയ പ്രസ്താവനകളാണെങ്കിൽ അത് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി കണക്കാക്കണം അതുപോലെ പ്രോഗ്രാമിംഗ് ഭാഷകളിൽ നൽകിയിട്ടുള്ള ക്ലാസുകളിൽ അന്തർനിർമ്മിതമാണ് അവയെ മൂല്യമുള്ളതായി കണക്കാക്കാമോ അല്ലെങ്കിൽ ഈ എൽഒസി നിങ്ങൾ വികസിപ്പിക്കാൻ പോകുന്ന സിസ്റ്റത്തിന്റെ ഭാഗമായി അവ കണക്കാക്കപ്പെടുമോ അതിനാൽ ഇവ ചില പരിമിതികളാണ് അതുകൊണ്ടാണ് കോഡിന്റെ വരികൾ എല്ലാത്തരം ആധുനിക ആപ്ലിക്കേഷനുകൾക്കും അനുയോജ്യമായ മെട്രിക് ആയിരിക്കില്ല തുടക്കത്തിൽ സോഫ്റ്റ്വെയർ വികസനത്തിൽ കോഡ് എഴുതുന്നത് മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ വികസിപ്പിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ സാധ്യമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റം അല്ലെങ്കിൽ പ്രോജക്റ്റ് വികസിപ്പിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു കോഡിന്റെ വരികളിൽ എൽഓസി പോലുള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കും അത് ലൈൻസ് ഓഫ് കോഡിനെ പ്രതിനിധീകരിക്കുന്നു കെഎൽഓസി എന്നാൽ കിലോ ലൈൻസ് ഓഫ് കോഡ് എന്നാണ് അതായത് ആയിരകണക്കിന് ലൈൻസ് ഓഫ് കോഡ് കെഎസ്എൽഓസി എന്നാൽ ആയിരക്കണക്കിന് സോഴ്സ് ലൈൻസ് ഓഫ് കോഡ് എൻസികെഎൽകെഎസ്എൽസി എന്നാൽ കെഎസ്എൽഓസി പുതിയതോ മാറ്റുന്നതോ ആണ് അപ്പോൾ എത്ര ലൈൻസ് ഓഫ് കോഡ് ആണ് അവ പൂർണ്ണമായും പുതിയതാണ് അല്ലെങ്കിൽ അവ മാറ്റിയിരിക്കുന്നു അതിനാൽ ഇവ ടെർമിനോളജികളാണ് അവ കോഡിന്റെ ഈ മെട്രിക് ലൈനുകളിൽ ഉപയോഗിക്കുന്നു എൽഒസിയുടെ കാര്യത്തിൽ അവബോധജന്യമായ ചില കാര്യങ്ങൾ പറയാം ഭാഷയുടെ നിലവാരം എത്രത്തോളം കുറയുന്നു പ്രോഗ്രാമ്മർക്ക് അത്രത്തോളം ഉൽപാദനക്ഷമതയാണ് ഉദാഹരണത്തിന് അസംബ്ലി ലെവൽ ലാംഗ്വേജ് മുതലായവ അവയുടെ വലുപ്പം കുറവായിരിക്കും ഒരു പ്രോഗ്രാമറുമായുള്ള ഒരു നിർദ്ദേശത്തിൽ നിരവധി കാര്യങ്ങൾ നേടിയേക്കാം അതുകൊണ്ടാണ് ഭാഷയുടെ നിലവാരം എത്രത്തോളം കുറയുന്നു പ്രോഗ്രാമ്മർക്ക് അത്രത്തോളം ഉൽപാദനക്ഷമതയാണ് എന്ന് പറയുന്നത് കുറഞ്ഞ വരികൾ കൊണ്ട് നമുക്ക് ധാരാളം ജോലികൾ നേടാൻ കഴിയും സമാനമായി അതേ പ്രവർത്തനം ഒരു താഴ്ന്ന നിലയിലുള്ള ഭാഷയിൽ നടപ്പിലാക്കാൻ കൂടുതൽ കോഡ് എടുക്കും തുടർന്ന് ഉയർന്ന തലത്തിലുള്ള ഭാഷയിൽ അത് അങ്ങനെയല്ല അതേ പ്രവർത്തനം ഉയർന്ന തലത്തിലുള്ള ഭാഷയേക്കാൾ താഴ്ന്ന നിലയിലുള്ള ഭാഷയിൽ നടപ്പിലാക്കാൻ കൂടുതൽ കോഡ് ആവശ്യമാണ് അതിനാൽ കൂടുതൽ വാചകം പ്രോഗ്രാമ്മിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു കൂടുതൽ വാചകം ഉണ്ടെങ്കിൽ പ്രോഗ്രാമർക്ക് ഉയർന്ന ഉൽപാദനക്ഷമതയാണ് കോഡിന്റെ വരികളെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപാദനക്ഷമതയുടെ അളവുകൾ സൂചിപ്പിക്കുന്നത് വെർബോസ് കോഡ് എഴുതുന്ന പ്രോഗ്രാമർമാർ കേവലം കോംപാക്റ്റ് കോഡ് എഴുതുന്ന പ്രോഗ്രാമർമാരേക്കാൾ കൂടുതൽ ഉൽപാദനക്ഷമതയുള്ളവരാണെന്നാണ് കാരണം കൂടുതൽ വെർബോസ് അവർ ഉപയോഗിക്കുന്നു അതിനാൽത്തന്നെ കോഡിന്റെ വരികൾ കൂടുതലായിരിക്കും അതിനാൽ ഇത് കോഡ് വരികൾക്കുള്ള അവബോധജന്യമായ മറ്റൊരു കൌണ്ടറാണ് ഇപ്പോൾ എസഎൽഓസി യുടെ ചില പ്രധാന പോരായ്മകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം കോഡിംഗ് ശൈലിയിൽ വലുപ്പം വ്യത്യാസപ്പെടാം അതിനാൽ വ്യത്യസ്ത പ്രോഗ്രാമർമാർക്ക് വ്യത്യസ്ത കോഡിംഗ് ശൈലികൾ പിന്തുടരാനാകും കൂടാതെ കോഡിംഗ് ശൈലി വ്യത്യസ്തമാണെങ്കിൽ വലുപ്പം വ്യത്യസ്തമായിരിക്കും അതുപോലെ ഈ എൽഒസി ഇത് മറ്റ് പ്രവർത്തനങ്ങളൊന്നും കേന്ദ്രീകരിക്കില്ല കോഡിംഗ് ആക്റ്റിവിറ്റിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു കാരണം സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിന് കുറച്ച് സമയമുണ്ടാകാം നിങ്ങൾക്ക് ആവശ്യകത വിശകലനം നടത്തേണ്ടിവരാം നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ആവശ്യകത വിശകലനത്തിനോ കോഡിംഗിനോ ടെസ്റ്റിംഗിനോ ഡിസൈനിംഗിനോ വേണ്ടി നിങ്ങൾ ചില ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ കോഡിംഗ് പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് എൽഒസി കണക്കിലെടുക്കുന്നില്ല അത് ഗുണനിലവാരവു൦ കോഡിന്റെ കാര്യക്ഷമതയുമായി വളരെ മോശമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ കോഡിന്റെ ഗുണനിലവാരം എന്താണ് കോഡിന്റെ കാര്യക്ഷമത എന്താണ് എൽഒസി അവരുമായി വളരെ മോശമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉയർന്ന ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷാ കോഡ് പുനരുപയോഗം മുതലായവയ്ക്ക് പിഴ ഈടാക്കുന്നു കാരണം ഭാഷാ പ്രോഗ്രാമിംഗ് കൂട്ടിച്ചേർക്കുന്നതിൽ വളരെ കുറച്ച് പ്രസ്താവനകളിലൂടെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ പക്ഷേ ഉയർന്ന തലത്തിൽ ഭാഷകൾ കൂടുതൽ പ്രസ്താവനകൾ ഉപയോഗിക്കാം അതിനാൽ ഇത് ഉയർന്ന തലത്തിലുള്ള ഭാഷകൾ പ്രോഗ്രാമിംഗ് ഭാഷകൾ എന്നിവയ്ക്ക് പിഴ ചുമത്തുന്നു അതുപോലെ നിങ്ങൾ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കോഡ് പുനരുപയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ കോഡ് പുനരുപയോഗം പിന്തുടരുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വീണ്ടും വീണ്ടും വികസിപ്പിച്ചെടുത്ത് കോഡ് പുനരുപയോഗം ഉപയോഗിക്കുന്നു അതിനാൽ ഇവ എസഎൽഓസി യുടെ ചില പോരായ്മകളാണ് അതിനാൽ മറ്റ് പോരായ്മകൾ പ്രശ്നത്തിന്റെ വിവരണത്തിൽ നിന്ന് പ്രോജക്റ്റിന്റെ തുടക്കത്തിൽ കണക്കാക്കാൻ പ്രയാസമാണ് നമുക്ക് ഒരു എസ്ആർഎസ് ഡോക്യുമെന്റ് പോലുള്ള ഒരു പ്രശ്ന വിവരണം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ വലുപ്പം അല്ലെങ്കിൽ ആരംഭം പദ്ധതിയുടെ കണക്കാക്കൽ വളരെ ബുദ്ധിമുട്ടാണ് അതിനുശേഷമുള്ള ഒരേയൊരു വഴി നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കൃത്യമായ ഒരു എസ്റ്റിമേറ്റ് നേടാൻ കഴിയില്ല ഏക മാർഗം ഊഹിക്കാൻ കണക്കാക്കുകയും പ്രോജക്റ്റ് ആസൂത്രണത്തിന് ഉപയോഗപ്രദമല്ല അതുകൊണ്ടാണ് ഈ എൽഓസി പദ്ധതി ആസൂത്രണത്തിന് വളരെയധികം ഉപയോഗപ്രദമല്ലാത്തത് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു കോഡ് അളവുകോലായി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളുടെ ആവശ്യകത വിശകലനം അല്ലെങ്കിൽ രൂപകൽപ്പന അല്ലെങ്കിൽ പരിശോധനയ്ക്കിടെ നിങ്ങൾ ചെലുത്തുന്ന ശ്രമം അളക്കുന്നതിന് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഇത് പ്രോഗ്രാമറെ ആശ്രയിച്ചിരിക്കുന്നു കാരണം വ്യത്യസ്ത പ്രോഗ്രാമർമാർ പ്രോഗ്രാമുകൾ വ്യത്യസ്തമായി എഴുതുന്നു അതിനാൽ കോഡിന്റെ വരികൾ പലതും വ്യത്യസ്തമാണ് ഇത് പ്രോഗ്രാമറെ ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല ഇത് ഘടനാപരമോ യുക്തിപരമോ ആയ സങ്കീർണ്ണത പരിഗണിക്കുന്നില്ല ഇത് ലെക്സിക്കൽ വാചക സങ്കീർണ്ണത എന്നിവ മാത്രം പരിഗണിക്കുന്നു പ്രോഗ്രാമിംഗ് രീതിശാസ്ത്ര പ്രോഗ്രാമിലെയും ഭാഷകളിലെയും ഉപകരണങ്ങളിലെയും ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ കാരണം എസ്എൽഓസി പോലുള്ള ചില ബുദ്ധിമുട്ടുകൾ അവ്യക്തമായിത്തീരുന്നു ഭാഷാ പുരോഗതി അവിടെ ഉണ്ടെന്ന് കണ്ടേക്കാം അതിനാൽ വ്യത്യസ്ത ഭാഷകൾ വരുന്നു ഇത് പ്രശ്നത്തിലേക്ക് നയിച്ചേക്കാം ഇത് എസ്എൽഓസി കണക്കാക്കുമ്പോൾ അവ്യക്തതയിലേക്ക് നയിക്കും അതുപോലെ നിങ്ങൾക്ക് സോഴ്സ് കോഡ് സ്വപ്രേരിതമായി സൃഷ്ടിക്കാൻ കഴിയുന്നിടത്ത് നിരവധി ഉപകരണങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ആർഎസ്എ രാഷ്ണൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ഉള്ളതുപോലെ ഈ എസ്എൽഓസി വളരെ ഉപകാരപ്രദമാകില്ല ക്ലാസ് ഡയഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് സ്വയമേവ സ്കെലിട്ടൽ കോഡ് സൃഷ്ടിക്കാൻ കഴിയും പിന്നെ എസ്എൽഓസി ശരിയായിരിക്കില്ല അത് അളക്കാൻ അനുയോജ്യമല്ലായിരിക്കാം വലുപ്പം സമാന ഇച്ഛാനുസൃതം സോഫ്റ്റ്വെയർ പുനരുപയോഗം എന്നിവ അളക്കാൻ അനുയോജ്യമായ മെട്രിക് ആയിരിക്കില്ല ഇത് നിങ്ങൾ സോഫ്റ്റ്വെയർ ഇച്ഛാനുസൃതമാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഇച്ഛാനുസൃത സോഫ്റ്റ്വെയർ വികസിപ്പിക്കുകയും കോഡ് പുനരുപയോഗം ഉപയോഗിക്കുകയുമാണെങ്കിൽ എസ്എൽഓസി അവ്യക്ത൦ ആയിരിക്കും സമാനമായി ഒരു പുതിയ പ്രോഗ്രാമിംഗ് കാരണമോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമുകൾ വീക്ഷണാധിഷ്ഠിത പ്രോഗ്രാമുകൾ ഫീച്ചർ ഓറിയന്റഡ് പോലുള്ള പ്രോഗ്രാമിംഗ് രീതിശാസ്ത്രത്തിലെ മാറ്റങ്ങൾ പ്രോഗ്രാമുകൾ ആയതിനാൽ അവ അത്തരം സന്ദർഭങ്ങളിൽ SLOC ആണ് ഈ അളവ് എസ്എൽഓസി ഉപയോഗിച്ച് വലുപ്പം കൃത്യമായി കണക്കാക്കാൻ കഴിയില്ല പരിശ്രമത്തിനുള്ള സാങ്കേതിക വിദ്യകളിൽ ചിലത് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ഈ വിലനിർണ്ണയ രീതി ഇതിനകം കണ്ടു തുടർന്ന് മറ്റ് സാങ്കേതികതകളെക്കുറിച്ച് നമ്മൾ കാണും ആദ്യത്തെ വിദഗ്ദ്ധ ന്യായവിധി അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതികതകൾ ചർച്ച ചെയ്യും ഇവിടെ വിദഗ്ദ്ധരുടെ വിധിന്യായത്തിൽ അധിഷ്ഠിതമായ സാങ്കേതികതകളാണ് ഇവയെന്ന് കാണും അത് അടിസ്ഥാന വിദഗ്ദ്ധരുടെ വിധിന്യായത്തിന്റെ ശരാശരി കണക്കാക്കിയ സമവായ എസ്റ്റിമേറ്റിംഗും ഡെലിവറിയും ആണ് അടിസ്ഥാന വിദഗ്ദ്ധ വിധിന്യായത്തെക്കുറിച്ച് ആദ്യം പറയാം ഒന്നോ അതിലധികമോ വിദഗ്ധർ സോഫ്റ്റ്വെയർ ചെലവ് പ്രവചിക്കുന്നു വിദഗ്ദ്ധർക്കിടയിൽ ചില സമവായം ഉണ്ടാകുന്നതുവരെ ഈ പ്രക്രിയ ആവർത്തിക്കുന്നു ഈ രീതി ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം അത് താരതമ്യേന വളരെ ലളിതമായ എസ്റ്റിമേറ്റാണ് ഇത് വളരെ ലളിതമായ ഒരു കണക്കാക്കൽ രീതിയാണ് വിദഗ്ദ്ധർക്ക് സമാന സംവിധാനങ്ങളുടെ നേരിട്ടുള്ള അനുഭവമുണ്ടെങ്കിൽ ഇത് കൃത്യമായിരിക്കാം എന്നാൽ നിങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന്റെ അനുഭവം വിദഗ്ദ്ധർക്ക് ഇല്ലെങ്കിൽ കണക്കാക്കൽ തെറ്റായിരിക്കാം കണക്കാക്കിയേക്കാവുന്ന പോരായ്മകൾ വളരെ കൃത്യതയില്ലാത്തതാകാം നിങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംവിധാനത്തിൽ വിദഗ്ധരാരും ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ ഒരു ഏവിയോണിക്സ് സിസ്റ്റം വികസിപ്പിക്കുകയാണെന്നും ഏവിയോണിക്സിനെ കുറിച്ച് അറിവുള്ള വിദഗ്ദ്ധരുമില്ലെങ്കിൽ വ്യക്തമായും എസ്റ്റിമേറ്റുകൾ തെറ്റായിരിക്കും അതിനാൽ അടിസ്ഥാന വിദഗ്ദ്ധ വിധി രീതിയുടെ ഈ ഘട്ടങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ഈ രീതിയിൽ വിദഗ്ദ്ധരുടെ ഒരു സംഘം ഉണ്ടാകും കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഒരാൾ കോർഡിനേറ്റർ ഓരോ വിദഗ്ദ്ധനെയും ഒരു സ്പെസിഫിക്കേഷനും ഒരു എസ്റ്റിമേറ്റ് ഫോമും അവതരിപ്പിക്കുന്നു എന്ത് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഏകോപിപ്പിക്കുക കൂടാതെ കോർഡിനേറ്റർ ഒരു കൂട്ടം മീറ്റിംഗിനെ വിളിക്കുന്നു അതിൽ വിദഗ്ധർ ഒരു കോർഡിനേറ്ററുമായും പരസ്പരം എസ്റ്റിമേറ്റ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു കോർഡിനേറ്ററുമായി എസ്റ്റിമേറ്റ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വിദഗ്ധരും മറ്റ് വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്താൻ കോർഡിനേറ്റർക്ക് കഴിയും തുടർന്ന് വിദഗ്ധർ ഫോമുകൾ അജ്ഞാതമായി പൂരിപ്പിക്കുന്നു തുടർന്ന് കോർഡിനേറ്റർ എസ്റ്റിമേറ്റിന്റെ ഒരു സംഗ്രഹം തയ്യാറാക്കി വിതരണം ചെയ്യുന്നു തുടർന്ന് അദ്ദേഹം ഒരു ആവർത്തന രൂപത്തിൽ എസ്റ്റിമേറ്റിന്റെ സംഗ്രഹം വിതരണം ചെയ്യുന്നു തുടർന്ന് കോർഡിനേറ്റർ ഒരു ഗ്രൂപ്പ് മീറ്റിംഗിനെ പ്രത്യേകമായി വിളിക്കുന്നു വിദഗ്ദ്ധർ പോയിന്റുകൾ ചർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവിടെ അവരുടെ എസ്റ്റിമേറ്റുകൾ വ്യാപകമായി വ്യത്യാസപ്പെടുന്നു ഇവിടെ അഞ്ച് വിദഗ്ധരും അവരുടെ എസ്റ്റിമേറ്റുകളും പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുക വീണ്ടും കോർഡിനേറ്റർ ഒരു മീറ്റിംഗ് വിളിച്ച് എന്തുകൊണ്ട് ഒരു വ്യതിയാനം ഉണ്ടെന്ന് ചർച്ച ചെയ്യും കാരണം പ്രോജക്റ്റും പാരാമീറ്ററുകളും സമാനമാണ് എസ്റ്റിമേറ്റുകളിൽ എന്തുകൊണ്ട് ഒരു വ്യത്യാസമുണ്ടെന്നു അവർ ചർച്ച ചെയ്തിരിക്കാം വിദഗ്ധർ ഫോമുകൾ വീണ്ടും അജ്ഞാതമായി പൂരിപ്പിക്കും കൂടാതെ 4 6 ഘട്ടങ്ങൾ സമവായ തീരുമാനത്തിലെത്തുന്നതുവരെ ഉചിതമായത്ര റൌണ്ടുകൾക്കായി ആവർത്തിക്കുന്നു ഈ പ്രക്രിയ ആവർത്തിക്കും ഇപ്പോൾ ഒരു വിദഗ്ദ്ധൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ ഒരു വിദഗ്ദ്ധൻ പരിചിതനാണ് വിദഗ്ദ്ധൻ സിസ്റ്റത്തെക്കുറിച്ച് പരിചിതനാണ് കൂടാതെ നിങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ ഏരിയയെക്കുറിച്ചും നിങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യകളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിവുണ്ട് അതിനാൽ പ്രത്യേകിച്ചും നിലവിലുള്ള കോഡ് പരിഷ്ക്കരിക്കേണ്ടതും നിലവിലുള്ള കോഡ് ഇതിനകം പരിഷ്ക്കരിക്കാൻ ശ്രമിക്കുന്നതും വളരെ ഉചിതമാണ് തുടർന്ന് നിങ്ങൾ ഈ കണക്കാക്കൽ നടത്തുന്നു ഈ സാഹചര്യത്തിൽ അടിസ്ഥാന വിദഗ്ദ്ധരുടെ വിധിന്യായ സാങ്കേതികത വളരെ ഉപകാരപ്രദമായിരിക്കും പക്ഷേ ഗവേഷണം കാണിക്കുന്നത് പ്രായോഗികമായി വിധിന്യായത്തിൽ ഇത് അനലോജി മെത്തഡോളജി എന്നറിയപ്പെടുന്ന മറ്റൊരു രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ അനലോജി രീതി എന്ത് കാണുമെന്ന് നോക്കാം അതിനാൽ അടിസ്ഥാന വിദഗ്ദ്ധരുടെ വിധിന്യായ രീതി കടന്നുപോകുന്ന ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ഒരു അനലോഗ് രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഘട്ടങ്ങളും ഇതുപോലെയാണ് നിലവിലെ പ്രോജക്റ്റിന്റെ ഈ സവിശേഷതകൾ ആദ്യം തിരിച്ചറിയുക സമാന സവിശേഷതകളുള്ള മുൻ പ്രോജക്റ്റുകൾ തിരിച്ചറിയുക നിലവിലുള്ളതും മുമ്പത്തെതുമായ പ്രോജക്ടുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് നോക്കുക എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ കണ്ടെത്താനാകുമോ എന്ന് നോക്കുക അവ വ്യത്യാസങ്ങളാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക പിശകുകൾ അല്ലെങ്കിൽ അപകടസാധ്യതകൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തുക ഈ അനിശ്ചിതത്വം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു തുടർന്ന് ഈ അനിശ്ചിതത്വം അല്ലെങ്കിൽ അപകടസാധ്യത കുറയ്ക്കുന്നതിന് നിങ്ങൾ ചിലത് ടെക്സ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ചില നടപടികൾ സ്വീകരിക്കണം ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ അടിസ്ഥാന വിധിന്യായമാണ് അടിസ്ഥാന വിദഗ്ദ്ധരുടെ ന്യായവിധി സാങ്കേതികത അത് സാമ്യത കണക്കാക്കിയതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഈ എസ്റ്റിമേറ്റ് ഉപയോഗിച്ച് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരേ ആപ്ലിക്കേഷൻ ഡൊമെയ്നിലെ സമാന പ്രോജക്റ്റുമായി പ്രോജക്റ്റിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റിന്റെ വില കണക്കാക്കുന്നു അതിനാൽ ഒരു സ്വകാര്യ ഓർഗനൈസേഷൻ അക്കാദമിക് സ്ഥാപനത്തിനായി ഒരു പ്രോജക്റ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും അടുത്തതായി നിങ്ങൾ ഒരു സർക്കാർ സ്ഥാപനത്തിന് അക്കാദമിക് സംവിധാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്ട് മാനേജർ ആണെങ്കിൽ അവ സമാന തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാണെന്നു കരുതുക അതിനാൽ അക്കാദമിക് സ്വയംഭരണ സംവിധാനം വികസിപ്പിക്കുന്നതിനിടയിൽ നിങ്ങൾ ചെലവഴിച്ച പ്രോജക്റ്റുകളെ സ്വകാര്യ ഓർഗനൈസേഷനോ സ്വകാര്യ സർവ്വകലാശാലയ്ക്കോ വേണ്ടി നിർദ്ദേശിച്ചവയുമായി താരതമ്യപ്പെടുത്തുന്നു അതായത് സർക്കാർ സർവ്വകലാശാലയെ സംബന്ധിച്ചിടത്തോളം എസ്റ്റിമേറ്റ് കുറച്ച് വ്യത്യാസമുണ്ടാകാം പക്ഷേ ഇത് ഉചിതമായ ഫലം നൽകും അതിനാൽ ഒരേ ആപ്ലിക്കേഷൻ ഡൊമെയ്നിലെ സമാന പ്രോജക്റ്റുമായി പ്രോജക്റ്റിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു പ്രോജക്റ്റിന്റെ വില കണക്കാക്കുന്നു ഒരു ഉദാഹരണം ഞാൻ ഇതിനകം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഇതിനകം ഒരു സ്വകാര്യ സ്ഥാപനത്തിനായി ഒരു പ്രോജക്റ്റ് വികസിപ്പിച്ചെടുക്കുകയും ഒരു സർക്കാർ അക്കാദമിക് സ്ഥാപനത്തിനായി സമാനമായ ഒരു പ്രോജക്റ്റ് വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാർ സർവ്വകലാശാലയോ സ്ഥാപനമോ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ ഏറ്റെടുക്കുന്ന പുതിയ പ്രോജക്റ്റിനായി നിങ്ങൾക്ക് പ്രോജക്റ്റുകൾ താരതമ്യം ചെയ്യാനും അതിനനുസരിച്ച് കണക്കാക്കാനും കഴിയും ഇപ്പോൾ എസ്റ്റിമേറ്റ് അനലോജിയുടെ ഗുണങ്ങൾ കൃത്യമായിരിക്കാം അവ ലഭ്യമായ പ്രോജക്റ്റ് ഡാറ്റയും ആളുകളും ഉപകരണങ്ങളും ഒരേപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായ പ്രോജക്റ്റ് ഡാറ്റയിൽ നിന്ന് ഇത് കൃത്യമായിരിക്കാം ആദ്യ പ്രോജക്റ്റും ആളുകളും ഉപകരണങ്ങളും ഒന്നുതന്നെയാണ് ഇതാണ് ഗുണങ്ങൾ അനുയോജ്യമായ ഒരു പ്രോജക്ടും കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വളരെ അസാധ്യമാണ് എന്നതാണ് പോരായ്മകൾ സമാനമായ തരത്തിലുള്ളതോ അല്ലെങ്കിൽ സമാനമായ പ്രോജക്ടുകളോ അവർ നേരത്തെ ചെയ്തിട്ടില്ലെങ്കിൽ നിലവിലെ പ്രോജക്റ്റുകൾക്കായി നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല അതിനാൽ ഇത് ദോഷമുണ്ടാക്കും ഇതിന് വ്യവസ്ഥാപിതമായി പരിപാലിക്കുന്ന കോസ്റ്റ് ഡാറ്റാബേസ് ആവശ്യമാണ് മുമ്പത്തെ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെങ്കിലും ചില ഡാറ്റാബേസിൽ അവയുടെ വിവിധ ചിലവുകൾ നിങ്ങൾ നിലനിർത്തണം ഇത് വ്യവസ്ഥാപിതമായി ആവശ്യമാണ് അവയുടെ ചിലവ് ഡാറ്റാബേസ് പരിപാലിക്കുക അതുവഴി നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയും ഇനി നമുക്ക് അടിസ്ഥാന വിദഗ്ദ്ധരുടെ വിധിന്യായത്തിലേക്ക് മടങ്ങാം എന്തൊക്കെയാണ് പോരായ്മകൾ എന്ന് കണക്കാക്കാൻ വളരെ പ്രയാസമാണ് അതുപോലെ വിദഗ്ദ്ധരോ വിദഗ്ധ സംഘമോ ഉപയോഗിക്കുന്ന വിവിധ ഘടകങ്ങൾ രേഖപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ് വിദഗ്ദ്ധർ പക്ഷപാതപരമായിരിക്കാം കാരണം അവർ മനുഷ്യരാണ് വിദഗ്ധർ പക്ഷപാതപരമായിരിക്കാം അവർ ശുഭാപ്തി വിശ്വാസികളോ അശുഭാപ്തിവിശ്വാസികളോ ആകാം ഗ്രൂപ്പ് അഭിപ്രായ സമന്വയത്താൽ അവ കുറയുകയും വിദഗ്ദ്ധ വിധിന്യായ രീതി എല്ലായ്പ്പോഴും അൽഗോരിതം രീതികൾ പോലുള്ള മറ്റ് ചെലവ് കണക്കാക്കൽ രീതികൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ എല്ലായ്പ്പോഴും വിദഗ്ദ്ധരുടെ വിധിന്യായ രീതി ഇത് അൽഗോരിതം രീതി പോലുള്ള മറ്റ് കണക്കാക്കൽ രീതി പൂർത്തീകരിക്കുന്നു വെയ്റ്റഡ് ആവറെജ് എസ്റ്റിമേറ്റായ രണ്ടാമത്തേത് ഇപ്പോൾ നമുക്ക് ലഭിക്കും ഇവിടെ വെയ്റ്റഡ് ശരാശരി എസ്റ്റിമേറ്റ് ഒരു സെൻസിറ്റീവ് അനാലിസിസ് എസ്റ്റിമേറ്റ് എന്നും അറിയപ്പെടുന്നു ഇവിടെ ഒന്നിനെക്കാൾ മൂന്ന് എസ്റ്റിമേറ്റുകൾ ലഭിക്കുന്നു കാരണം നിങ്ങൾ ഒന്നിലേക്ക് പോകുന്നുവെങ്കിൽ അത് പൂർണ്ണമായും കൃത്യമായിരിക്കില്ലായിരിക്കാം അതിനാൽ ഒന്നിനേക്കാൾ മൂന്ന് എസ്റ്റിമേറ്റുകൾ ലഭിക്കും അതിനാൽ ഏറ്റവും മികച്ചത് ഒ അല്ലെങ്കിൽ ശുഭാപ്തിവിശ്വാസം പിന്നെ ഏറ്റവും മോശം കേസ് അല്ലെങ്കിൽ അശുഭാപ്തി കേസ് പി മിക്ക കേസുകളും അല്ലെങ്കിൽ മിക്കവാറും നമ്മൾ എടുക്കുന്ന മീഡിയൻ അല്ലെങ്കിൽ എം ഇപ്പോൾ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് മാത്രം പരിഗണിക്കുന്നതിനെകാൾ ഇത് കൂടുതൽ കൃത്യമായ എസ്റ്റിമേറ്റ് നൽകുന്നു അതിനാൽ എസ്റ്റിമേറ്റ് നിർമ്മിക്കുന്നതിന് ഇവ ഒരു ഫോർമുലയിൽ ഉപയോഗിക്കുന്നു ആ ഫോർമുല ഇതാണ് കണക്കാക്കിയ ശ്രമം O 4M P 6 ഏറ്റവും മോശം അവസ്ഥയിൽ ആദ്യം ഈ മൂല്യങ്ങൾ കണ്ടെത്തുക തുടർന്ന് ഈ ഫോർമുല ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ കണക്കാക്കിയ ശ്രമം ലഭിക്കും ഇതാണ് അതിൽ സംഭവിക്കുന്നത് അതിനാലാണ് അവയെ വെയിറ്റഡ് ആവറെജ് എസ്ടിമെറ്റ് എന്ന് വിളിക്കുന്നത് സമവായം കണക്കാക്കൽ ആണ് മറ്റൊരു രീതി ഇവിടെ ഒരു സമവായ എസ്റ്റിമേറ്റ് സെഷൻ നടത്തുന്നതിനുള്ള ഘട്ടങ്ങൾ ഇതുപോലെയാണ് ആദ്യം നിങ്ങൾ സംക്ഷിപ്തമായി ഒരു സംക്ഷിപ്തം പ്രോജക്റ്റിലെ എസ്റ്റിമേറ്റിംഗ് ടീമിന് നൽകിയിട്ടുണ്ട് തുടർന്ന് ഓരോ വ്യക്തിക്കും കണക്കാക്കാനുള്ള വർക്ക് ഘടകങ്ങളുടെ ഒരു ലിസ്റ്റ് നൽകും അവർ അത് കണക്കാക്കേണ്ടതുണ്ട് ഓരോ വ്യക്തിയും ഈ ശുഭാപ്തി മൂല്യത്തെ മിക്കവാറും ഔദ്യോഗിക ഘടകങ്ങളുടെ മൂല്യവും അശുഭാപ്തി മൂല്യവും സ്വതന്ത്രമായി കണക്കാക്കുന്നു എസ്റ്റിമേറ്റുകൾ വൈറ്റ്ബോർഡിൽ എഴുതി തുടർന്ന് ഓരോ വ്യക്തിയും അടിസ്ഥാനവും അനുമാനങ്ങളും അവർ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കിയതിനെക്കുറിച്ചും അവസാനം ചില നിർദ്ദേശങ്ങൾ വന്നേക്കാമെന്നതിനെക്കുറിച്ചും ചർച്ചചെയ്യുന്നു തുടർന്ന് ഒരു പരിഷ്കരിച്ച എസ്റ്റിമേറ്റ് ഹാജരാക്കപ്പെടും അതിനുശേഷം ഒഎം പി മൂല്യങ്ങളുടെ ശരാശരി എടുക്കേണ്ടതാണ് എടുക്കേണ്ട ശരാശരി നിങ്ങൾ എടുത്ത എസ്റ്റിമേറ്റുകളുടെ ഒരു പുതുക്കിയ സെറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നു ശുഭാപ്തിവിശ്വാസത്തിനായി നിങ്ങൾ ശരാശരി എടുക്കണം തുടർന്ന് അശുഭാപ്തി മൂല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കണക്കാക്കുന്നത് ഇവ കണക്കാക്കുകയും ഒടുവിൽ ഈ മൂല്യങ്ങൾ നമ്മൾ കണ്ട മുകളിലുള്ള സൂത്രവാക്യത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ രീതിയിൽ സമവായ കണക്കാക്കൽ പിന്തുടരുന്നു അടുത്തത് ഡെൽഫി കണക്കാക്കൽ ഇത് സമവായ കണക്കാക്കൽ സാങ്കേതികതയുടെ ഒരു വ്യതിയാനമാണ് ഇവിടെ ഇത് സമവായത്തിന്റെ ഒരു വ്യതിയാനമാണ് ഇവിടെ വിദഗ്ധരുടെ ഒരു സംഘവും അവിടെ ഉണ്ടാകും കൂടാതെ വിദഗ്ധരുടെ ഇടയിൽ ഏകോപിപ്പിക്കുന്നതിന് അവരുടെ കോർഡിനേറ്റർ ഉണ്ടാകും വിദഗ്ധർക്ക് എസ്റ്റിമേറ്റ് സ്വതന്ത്രമായി നടപ്പിലാക്കാം സാധാരണ വിദഗ്ധർ അവർ എസ്റ്റിമേറ്റ് സ്വതന്ത്രമായി നിർവഹിക്കും അവരുടെ വിലയിരുത്തലിന് പിന്നിലെ യുക്തി എന്താണെന്ന് അവർ പരാമർശിക്കും എന്താണ് യുക്തി അവർ എടുത്ത അനുമാനം എന്താണ് ഒരു പ്രബന്ധം അവർ പരാമർശിക്കും തുടർന്ന് ഏതെങ്കിലും വിദഗ്ദ്ധൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റർ അസാധാരണമോ യുക്തിസഹമോ രേഖപ്പെടുത്തുന്നു തുടർന്ന് അദ്ദേഹം കോർഡിനേറ്റർ പ്രചരിപ്പിക്കുന്നത് മറ്റ് വിദഗ്ധർക്കിടയിൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ യുക്തി വിശദീകരിക്കുന്നു മറ്റ് വിദഗ്ദ്ധരിൽ നിന്ന് എസ്റ്റിമേറ്റുകൾ സ്വീകരിച്ചതിനുശേഷം അവർ അവരുടെ മൂല്യങ്ങൾ വീണ്ടും കണക്കാക്കുന്നു എന്നാൽ ഇവിടെ വിദഗ്ദ്ധർ ഒരിക്കലും വിധിന്യായത്തിൽ പരസ്പരം കണ്ടുമുട്ടുന്നില്ല അല്ലെങ്കിൽ വിദഗ്ദ്ധ വിധിന്യായത്തിൽ അവർ പരസ്പരം വിദഗ്ധരെ കണ്ടുമുട്ടുന്നു എന്നാൽ ഇവിടെ ഡെൽഫി കണക്കാക്കുന്നത് കോർഡിനേറ്റർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അദ്ദേഹം മറ്റ് വിദഗ്ധർക്കിടയിൽ പ്രചരിപ്പിക്കും വിദഗ്ദ്ധർ ഒരിക്കലും അവരുടെ വീക്ഷണകോണുകൾ ചർച്ച ചെയ്യാൻ പരസ്പരം കണ്ടുമുട്ടുന്നില്ല ഡെൽഫി എന്നാൽ രണ്ടോ അതിലധികമോ റൌണ്ടുകളിൽ ഒരു വിദഗ്ദ്ധ സർവേയാണ് രണ്ടാം റൌണ്ടിൽ നിന്നും ആരംഭിച്ച് ആദ്യ റൌണ്ട് അവസാനിച്ചു ആദ്യ റൌണ്ട് രണ്ടാം റൌണ്ടിൽ നിന്നും ആരംഭിച്ചതിന് മുമ്പുള്ള റൌണ്ടുകളുടെ ഫലത്തെക്കുറിച്ച് ഒരു ഫീഡ്ബാക്ക് നൽകുന്നു തുടർന്ന് അതേ വിദഗ്ദ്ധൻ അതേ കാര്യങ്ങൾ മറ്റ് വിദഗ്ധരുമായി വിലയിരുത്തുന്നു അദ്ദേഹം മറ്റ് വിദഗ്ധരുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ കണക്കിലെടുക്കുകയും അതേ കാര്യങ്ങൾ വീണ്ടും വിലയിരുത്തുകയും അതേ പാരാമീറ്ററുകൾ വീണ്ടും വിലയിരുത്തുകയും ചെയ്യുന്നു അതിനാൽ ഇവിടെ പ്രധാനപ്പെട്ടത് അനോണിമിട്ടി ആണ് ഓരോ ഘട്ടം എന്നത് കോർഡിനേറ്റർ ഓരോ വിദഗ്ധർക്കും ഒരു എസ്റ്റിമേറ്റ് ഫോം വിതരണം ചെയ്യുന്നു തുടർന്ന് കോർഡിനേറ്റർ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കുന്നു അതിൽ അവർ എസ്റ്റിമേറ്റ് പ്രശ്നങ്ങൾ കോർഡിനേറ്ററുമായും പരസ്പരം ചർച്ച ചെയ്യുന്നു തുടർന്ന് വിദഗ്ധരും ഫോമുകൾ അജ്ഞാതമായി പൂരിപ്പിക്കുന്നു കോർഡിനേറ്റർ ഒരു ആവർത്തന ഫോമിൽ എസ്റ്റിമേറ്റിന്റെ ഒരു സംഗ്രഹം തയ്യാറാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ കോർഡിനേറ്റർ ശ്രദ്ധേയമായ യുക്തിയിൽ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കുന്നു അവിടെ കണക്കാക്കിയ വൈവിധ്യമാർന്ന വ്യത്യാസമുണ്ട് വീണ്ടും അജ്ഞാതമായി വിദഗ്ദ്ധർ ഫോമുകൾ പൂരിപ്പിക്കുന്നു കൂടാതെ 4 6 ഘട്ടങ്ങൾ ഉചിതമായ റൌണ്ടുകൾക്കായി ആവർത്തിക്കുന്നു ഒടുവിൽ നമ്മൾ വില ചർച്ചചെയ്തു കണക്കാക്കൽ രീതി നേടുന്നതിനായി ഈ വിലയിൽ ഒരു രീതി ആദ്യം ചർച്ചചെയ്തു തുടർന്ന് എൽഓസി അല്ലെങ്കിൽ എസ്എൽഓസി ഉപയോഗിച്ച് വലുപ്പം എങ്ങനെ കണക്കാക്കാമെന്ന് അവതരിപ്പിച്ചു വിദഗ്ദ്ധനായ ന്യായവിധി അടിസ്ഥാനമാക്കിയുള്ള എസ്റ്റിമേറ്റ് ടെക്നിക്കുകളും ചർച്ച ചെയ്തു അടിസ്ഥാന വിധിന്യായം ശരാശരി കണക്കാക്കൽ സമവായ കണക്കാക്കൽ ഡെൽഫി എന്നിവ കണക്കാക്കുന്നു അനലോജി അടിസ്ഥാനമാക്കിയുള്ള കണക്കാക്കലും വിശദീകരിച്ചു ഇവയാണ് റെഫറൻസുകൾ വളരെയധികം നന്ദി